അതിനാൽ ഞങ്ങളുടെ അവസാന പ്രഭാഷണത്തിൽ നിങ്ങൾ ഓർക്കുന്നുവെങ്കിൽ ഞങ്ങൾ സംസാരിച്ചത് ടൈമിംഗ് ഡ്രെവൻ പ്ലെയ്സ്മെന്റ് പ്രശ്നങ്ങൾ ചില അൽഗോരിതങ്ങൾ അവിടെ ഉപയോഗിക്കുന്ന ചില സാങ്കേതികതകൾ എന്നിവയെക്കുറിച്ചാണ് അതിനാൽ ഞങ്ങൾ ഇന്ന് ചർച്ച തുടരുന്നു ഇന്ന് ടൈമിംഗ് ഡ്രെവൻ റൂട്ടിംഗിനെക്കുറിച്ചുള്ള ചില ചർച്ചകളോടെ ആരംഭിക്കുന്നു അതിനാൽ അടിസ്ഥാന ആശയം ഇപ്രകാരമാണ് ടൈമിംഗ് ഡ്രെവൻ പ്ലെയ്സ്മെന്റിനെക്കുറിച്ച് ഞങ്ങൾ സംസാരിച്ചപ്പോൾ വിമർശനാത്മകത കുറയുന്നതിനും മറ്റും ചില സമയ പരിമിതികൾ നേരിടുന്ന വിധത്തിൽ ബ്ലോക്കുകൾ എങ്ങനെ സ്ഥാപിക്കാം എന്നതായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് റൂട്ടിംഗിനെക്കുറിച്ചാണ് ഞങ്ങൾ വ്യക്തിഗത നെറ്റുകളെക്കുറിച്ചാണ് സംസാരിക്കുന്നത് സാധാരണയായി മൾട്ടി പിൻ നെറ്റുകളെ ഉണ്ടാകും നെറ്റ് പൊതുവെ 2 പോയിന്റിൽ കൂടുതൽ ബന്ധിപ്പിക്കും അതിനാൽ ആ നെറ്റുകളെ ലോഹ പാളിയിൽ എങ്ങനെ വിന്യസിക്കാം അങ്ങനെ ചില ഡിലൈയ് മറ്റ് ചില ആവശ്യകതകളും നിയന്ത്രണങ്ങളും നിറവേറ്റുകയോ തൃപ്തിപ്പെടുകയോ ചെയ്യും അതിനാൽ നമുക്ക് ഇത് പരിശോധിക്കാം അതിനാൽ ഇവിടെ ഞാൻ നേരത്തേ സംസാരിച്ച പ്രചോദനം അതിനാൽ ഇന്നത്തെ VLSI ചിപ്പുകളിൽ ഇന്റർകണക്ടുകൾ മൊത്തം സിഗ്നൽ ഡിലേയ്യ് ഗണ്യമായ സംഭാവന നൽകുന്നുവെന്ന് ഞങ്ങൾ പരാമർശിക്കുന്നു കാരണം നിങ്ങൾ കാണുന്ന 2 കാര്യങ്ങൾ സവിശേഷത വലുപ്പങ്ങൾ കുറയ്ക്കുന്നതിനാൽ ട്രാൻസിസ്റ്ററുകൾ ചെറുതായിക്കൊണ്ടിരിക്കുന്നു ഗേറ്റുകളും ചെറുതായിക്കൊണ്ടിരിക്കുന്നു അവയുടെ മാറുന്ന വേഗത വർദ്ധിക്കുന്നു അതിനാൽ ഗേറ്റുകൾ വേഗത്തിലാകുന്നു പക്ഷേ നിങ്ങൾ പരസ്പരം ബന്ധിപ്പിക്കുന്ന വയറുകളെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ അവ നേർത്തതായിത്തീരുന്നു നേർത്തത് എന്നാൽ ഒരു യൂണിറ്റ് ദൈർഘ്യത്തിന് അവരുടെ പ്രതിരോധം വർദ്ധിക്കുന്നു ഒപ്പം സമാന്തരമായി പ്രവർത്തിക്കുന്ന ജോഡി വയറുകളും അവ ഇപ്പോൾ കൂടുതൽ അടുത്ത് പ്രവർത്തിക്കുന്നു അതിനാൽ അവയ്ക്കിടയിൽ കൂടുതൽ കപ്പാസിറ്റീവ് ഇഫക്റ്റുകൾ ഉണ്ട് ചില ക്രോസ് ടോക്കും മറ്റ് പ്രശ്നങ്ങളും ഉണ്ട് അതിനാൽ ഈ പ്രശ്നങ്ങൾ ചിത്രത്തിലേക്ക് വരുന്നു അതിനാൽ പരസ്പരബന്ധം കൂടുതൽ പ്രാധാന്യമർഹിക്കുന്നു വ്യക്തിഗത ഗേറ്റുകളുടെ ഡിലേയ്യ് താരതമ്യപ്പെടുത്തുമ്പോൾ മൊത്തത്തിലുള്ള ഡിലേയ്യ് തീരുമാനിക്കാനുള്ള മാർഗമാണിത് അതിനാൽ ഇവിടെ നിങ്ങൾ ടൈമിംഗ് ഡ്രെവൻ റൂട്ടിംഗിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ സംസാരിക്കുന്നത് ഒരുപക്ഷേ 2 വസ്തുനിഷ്ഠമായ പ്രവർത്തനങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ വസ്തുനിഷ്ഠമായ മാനദണ്ഡങ്ങളെക്കുറിച്ചോ ആണ് അതിനാൽ അവയിലൊന്ന് അല്ലെങ്കിൽ രണ്ടും കുറയ്ക്കാൻ ഞങ്ങൾ ശ്രമിച്ചേക്കാം പരമാവധി സിങ്ക് ഡിലേയ്യ് എന്താണ് ഒരു സിങ്ക് സിങ്ക് ഇതുപോലെയാണ് എനിക്ക് ഒരു നെറ് ഉണ്ടെന്ന് പറയാം ഇതുപോലുള്ള ഒരു നെറ്റ് നമുക്ക് പരിഗണിക്കാം മറ്റ് നിരവധി പോയിന്റുകളുമായി ബന്ധിപ്പിക്കേണ്ട ഒരു പോയിന്റുണ്ട് അതിനാൽ അവയെ ബന്ധിപ്പിക്കുന്നതിന് നിരവധി മാർഗങ്ങളുണ്ട് സാധ്യമായ ഒരു കണക്ഷൻ ഞാൻ കാണിക്കുന്നു അതിനാൽ ഈ പോയിന്റുകളിൽ ഒന്ന് ഞങ്ങൾ സോഴ്സ്മായി പരാമർശിക്കുന്നു സോഴ്സ് ബന്ധിപ്പിക്കേണ്ട മറ്റ് പോയിന്റുകളെ സിങ്ക് എന്ന് വിളിക്കുന്നു ഇപ്പോൾ ഞങ്ങൾ പരമാവധി സിങ്ക് ഡിലേയ്യ്ക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ സംസാരിക്കുന്നത് ഇതാണ് ഈ സോഴ്സ് മുതൽ ഓരോ സിങ്കുകൾ വരെ എന്തൊക്കെയാണ് ഡിലേയ്യ് അതിനാൽ പൊതുവേയുള്ള ഡിലേയ്യ് വ്യത്യസ്തമാണ് കാരണം പാതകൾ വ്യത്യസ്തമാണ് അവ നീളത്തിൽ വ്യത്യാസപ്പെടും മറ്റ് പാരസിറ്റിക് എഫക്ടുകൾ വ്യത്യസ്തമായിരിക്കും അതിനാൽ പരമാവധി സിങ്ക് ഡിലേയ്യ് കുറയ്ക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു അതിനർത്ഥം ഈ ഇന്റർനെറ്റ്വർക്ക് ട്രീ നമ്മൾ വരയ്ക്കുന്നത് ഇത് ഏതെങ്കിലും വിധത്തിൽ സന്തുലിതമാക്കേണ്ടതുണ്ട് അതിനാൽ സോഴ്സ്ൽ നിന്ന് സിങ്കുകളിലേക്കുള്ള ദൂരം അല്ലെങ്കിൽ മൊത്തം ഡിലേയ്യ് വളരെ വ്യത്യസ്തമല്ല അവ സന്തുലിതമാക്കണം പരമാവധി സിങ്ക് ഡിലേയ്യ് കഴിയുന്നിടത്തോളം കുറയ്ക്കണം ഇത് തീർച്ചയായും ഒരു മാനദണ്ഡമാണ് നിങ്ങൾക്ക് കാണാനാകുന്ന രണ്ടാമത്തെ മാനദണ്ഡം മൊത്തം വയർ ദൈർഘ്യമാണ് അതിനർത്ഥം എന്റെ പരസ്പര ബന്ധം വയറിന്റെ മൊത്തം നീളം കുറഞ്ഞത് ആയിരിക്കണം എന്നാണ് പരമ്പരാഗത റൂട്ടിംഗിനെക്കുറിച്ച് ഞങ്ങൾ സംസാരിച്ചപ്പോൾ വയർ നീളം കുറയ്ക്കുക എന്നതായിരുന്നു ഞങ്ങളുടെ പ്രധാന മാനദണ്ഡം അതിനാൽ നമ്മൾ എന്തിനെക്കുറിച്ചാണ് സംസാരിക്കുന്നതെങ്കിലും ഞങ്ങൾ പ്രധാനമായും സംസാരിക്കുന്നത് 2 പോയിന്റുകൾക്കിടയിലുള്ള മൊത്തം മാൻഹട്ടൻ ദൂരം സ്റ്റെയ്നർ ട്രീ ചെലവ് തുടങ്ങിയവയെക്കുറിച്ചാണ് എന്നാൽ ഇവിടെ മൊത്തം വയർ ദൈർഘ്യത്തിനു പുറമേ ഒരു സോഴ്സ്ൽ നിന്ന് ചില സിങ്കുകളിലേക്കുള്ള ഏറ്റവും മോശം അവസ്ഥ ഡിലേയ്യ്ക്കുറിച്ചും ഞങ്ങൾ സംസാരിക്കുന്നു ഈ പാതകളുടെ പരമാവധി ഡിലേയ്യ് എന്താണ് അതിനാൽ നമുക്ക് ചില നൊട്ടേഷനുകൾ അവതരിപ്പിക്കാം അതിനാൽ ഞങ്ങൾ ഒരു പ്രത്യേക നെറ്റ് പരിഗണിക്കുന്നു അതിനെ നെറ്റ് എന്ന് വിളിക്കുന്നു സോഴ്സ് നോഡ് ഞങ്ങൾ അതിനെ s0 ആയി നിയോഗിക്കുന്നു സിങ്ക് നോഡുകളുടെ n എണ്ണം s1 മുതൽ sn വരെ ഉണ്ടെന്ന് നമുക്ക് അനുമാനിക്കാം അതിനാൽ ഞങ്ങൾ ഒരു ഗ്രാഫ് നിർവ്വചിക്കുന്നു ഈ ഗ്രാഫിന്റെ വേർട്ടക്സുകൾ കണക്ട് ചെയ്യേണ്ട പോയിന്റുകളാണ് അതിനാൽ ഒന്ന് ഈ സ്രോതസ്സും മറ്റൊന്ന് സിങ്കുമാണ് അതിനാൽ ഞങ്ങളുടെ ഗ്രാഫ് ഇതുപോലെയാകുമെന്ന് നമുക്ക് പറയാം ഇത് v0 ഇത് v1 ഇതാണ് v2 എന്ന് പറയുന്നത് ഇവിടെ v3 ആണെന്ന് നമുക്ക് പറയാം ഇവിടെ v4 ആണെന്ന് നമുക്ക് പറയാം അതിനാൽ ഇതാണ് സോഴ്സ് ഇവയാണ് 4 സിങ്കുകൾ ഇപ്പോൾ നമ്മൾ അവരെ ഏതെങ്കിലും വിധത്തിൽ ബന്ധിപ്പിക്കേണ്ടതുണ്ട് ഇതാണ് ഞങ്ങളുടെ ആവശ്യം അതിനാൽ അതിനുപുറമേ ഞങ്ങൾ ഒരു എഡ്ജിന്റെ ചില വെയ്റ്റുകൾ നിർവചിക്കുന്നു ഒരു ജോടി വേർട്ടക്സുകൾക്കിടയിൽ vi vj എന്നിവയ്ക്ക് ഒരു എഡ്ജുണ്ട് അതിനാൽ ഈ e vi vj എന്നത് vi vj എന്നിവ തമ്മിലുള്ള എഡ്ജ് ആണ് എഡ്ജിന്റെ ഒരു ഭാരം നമുക്ക് നിർവ്വചിക്കാം ആ അറ്റത്തിന്റെ ഭാരം vi vj എന്നിവയ്ക്കിടയിലുള്ള റൂട്ടിംഗ് ചെലവിനെ സൂചിപ്പിക്കും ഉദാഹരണത്തിന് v3 നും v4 നും ഇടയിൽ നമുക്ക് ഇവിടെ പറയാം ഇത് സാധ്യമായ ഒരു കണക്ഷനാകാം അതിനാൽ അവയ്ക്കിടയിലുള്ള ഭാരം ഇതിന്റെ വിലയെ സൂചിപ്പിക്കും V2 നും v3 നും ഇടയിൽ കണക്ഷൻ ഇങ്ങനെയായിരിക്കാം അതിനാൽ നമ്മൾ ഒരു ഗ്രാഫിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ v2 നും v3 നും ഇടയിൽ എഡ്ജ് ഉണ്ടെന്ന് ഞങ്ങൾ അനുമാനിക്കും v3 നും v4 നും ഇടയിൽ ഒരു എഡ്ജ് ഉണ്ട് മറ്റ് എഡ്ജ് ഉണ്ടായിരിക്കാം കൂടാതെ ഏതെങ്കിലും ജോഡി വേർട്ടക്സുകൾക്കിടയിൽ എഡ്ജ്കൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതിനാൽ ഞാൻ ചില എഡ്ജ്കൾ കാണിക്കുന്നു അതിനാൽ ഇതിന്റെ ഭാരം ഈ ഓരോ എഡ്ജ്കളും സൂചിപ്പിക്കുന്നത് ഈ 2 ജോഡി വേർട്ടക്സുകൾ ബന്ധിപ്പിക്കുന്ന പാതയുടെ വിലയോ ഡിലേയ്യ് എന്താണെന്ന് ഇത് തീർച്ചയായും വയർ നീളം നിർണ്ണയിക്കുകയും ചെയ്യും കൂടാതെ റെസിസ്റ്റൻസ് കപ്പാസിറ്റീവ് പ്രതിരോധശേഷി കപ്പാസിറ്റീവ് ഇഫക്റ്റുകൾ എന്നിവയും RC ഡിലേയ്യ് വരുത്തുകയും മറ്റ് പരാന്നഭോജികൾ ഉണ്ടാക്കുകയും ചെയ്യും അതിനാൽ ഒരു ഗ്രാഫിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ഒരു കൂട്ടം പോയിന്റുകളെ ബന്ധിപ്പിക്കുന്നതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഫലപ്രദമായി ഞാൻ ഉദ്ദേശിക്കുന്നത് ഞങ്ങൾക്ക് വേണ്ടത് ഒരു ട്രീ ആണ് ഒരു സ്പാനിങ് ട്രീ ഇപ്പോൾ നമുക്ക് വീണ്ടും നോക്കാം ഇത് വിശദീകരിക്കാൻ ഒരു ഉദാഹരണം എടുക്കുക നമുക്ക് പറയാം എനിക്ക് വീണ്ടും ഒരു കൂട്ടം വേർട്ടക്സുകളുണ്ട് അതാണ് ഞാൻ കുറച്ച് കാണിക്കുന്നു അതിനാൽ ഞങ്ങൾ ഒരു ട്രീ നിർവചിക്കുന്നു ഒരു ട്രീ ഒരു ഗ്രാഫ് എന്താണെന്ന് കാണുക ചില എഡ്ജുകളാൽ ബന്ധിപ്പിച്ചിരിക്കുന്ന ഒരു കൂട്ടം വേർട്ടക്സുകൾ ആണ് ഗ്രാഫ് അതിനാൽ ട്രീ സൈക്കിൾ ഇല്ലാത്ത ഒരു ഗ്രാഫാണ് നിങ്ങൾ കാണുന്നതിനാൽ ഞാൻ ഒരു കൂട്ടം പോയിന്റുകൾ ബന്ധിപ്പിക്കുമ്പോൾ ഞാൻ ഇതിനകം 4 പോയിന്റുകൾ കണക്റ്റുചെയ്തിരിക്കുന്നിടത്ത് ഇതുപോലുള്ള ഒരു കണക്ഷൻ ഉണ്ടാക്കുന്നതിൽ അർത്ഥമില്ല കൂടാതെ ഞാൻ ഇതുപോലുള്ള മറ്റൊരു കണക്ഷൻ ഉണ്ടാക്കുന്നു അതിനാൽ ഞാൻ ഇവിടെ ഒരു സൈക്കിൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതിനാൽ അത്തരമൊരു പരസ്പരബന്ധിത ട്രീൽ ഒരു സൈക്കിൾ ഉണ്ടായിരിക്കുന്നതിൽ അർത്ഥമില്ല കാരണം ആത്യന്തികമായി നമ്മൾ ഈ പോയിന്റുകൾ പരസ്പരം ബന്ധിപ്പിക്കുന്നതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് അതിനാൽ ഞങ്ങൾക്ക് വേണ്ടത് ഒരു ട്രീ ആണ് നിങ്ങൾ ഒരു സ്പാനിങ് ട്രീനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അപ്പോൾ എന്താണ് ഒരു സ്പാനിങ് ട്രീ സ്പാനിങ് ട്രീ വേർട്ടക്സുകൾ മൂടുന്ന ഒരു ട്രീ ആണ് അതിനാൽ ഈ ഗ്രാഫിനായി ധാരാളം സ്പാനിങ് ട്രീ ഉണ്ടാകാം ഒരു സാധ്യതയുള്ള സ്പാനിങ് ട്രീ ഇതായിരിക്കാം എല്ലായിടത്തും സൈക്കിൾ ഇല്ലാത്തവിധം എല്ലാ വേർട്ടക്സുകളെയും ബന്ധിപ്പിക്കുന്നതിനുള്ള ഒരു മാർഗമാണ് സ്പാനിംഗ് ട്രീ കാരണം ഒരു ഇന്റർ കണക്ഷൻ നെറ്റ്വർക്കിനുള്ള സൈക്കിളിന് അർത്ഥമില്ല ഇപ്പോൾ ഈ ട്രീ സംബന്ധിച്ചിടത്തോളം ഈ ഡയഗ്രാമിൽ ഞാൻ ഒരു സ്പാനിങ് ട്രീ കാണിക്കുന്നു സ്പാനിങ് ട്രീ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ സ്പാനിങ് ട്രീ T എന്ന് വിളിക്കാം ഞങ്ങൾ 2 നിബന്ധനകൾ നിർവ്വചിക്കുന്നു ഒന്ന് സ്പാനിങ് ട്രീ റേഡിയസ് മറ്റൊന്ന് സ്പാനിങ് ട്രീ വിലയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നു ഈ പോയിന്റുകൾ ചില കൃത്യമായ കോ ഓർഡിനേറ്റുകളിൽ 2 ഡൈമൻഷണൽ ഗ്രിഡിൽ സ്ഥിതിചെയ്യുന്നു അതിനാൽ നമുക്ക് ചില വെയ്റ്റുകൾ നിർവചിക്കാനും കഴിയും V0 v1 എന്നിവയ്ക്കിടയിൽ ഇത് ഒരു W01 വെയിറ്റ് ആണെന്ന് നമുക്ക് പറയാം ഇത് ഒരു വെയിറ്റ് W12 ആണെന്ന് പറയാം ഇത് W23 W24 വെയിറ്റ് ആണ് അതിനാൽ ഈ വെയ്റ്റുകൾ സൂചിപ്പിക്കുന്നത് വയറുകളുടെ പരസ്പരബന്ധിതമായ ഈ ഭാഗങ്ങളിൽ ഡിലേയ്യ് അല്ലെങ്കിൽ കണക്കാക്കിയ ഡിലേയ്യ് എന്തായിരിക്കും എന്നാണ് ഇപ്പോൾ ഞാൻ വിലയെക്കുറിച്ച് പറയുമ്പോൾ ചെലവ് എന്നാൽ നിങ്ങൾക്ക് പറയാൻ കഴിയുന്ന മൊത്തം വെയിറ്റ് ഈ സ്പാനിങ് ട്രീ വെയിറ്റ്ന്റെ ആകെത്തുക എന്നാണ് അർത്ഥമാക്കുന്നത് അതിനാൽ ഇത് സ്പാനിങ്ണെന്ന് കരുതുക ഇത് ബന്ധിപ്പിക്കുന്ന ഒരു ട്രീ ആണ് ഞാൻ ബന്ധിപ്പിക്കാൻ ശ്രമിക്കുന്നു അതിനാൽ എന്റെ എല്ലാ വിലകളുടെയും ഈ തുക ഞാൻ എടുക്കുകയാണെങ്കിൽ അത് എന്റെ ചിലവ് നിർവ്വചിക്കും ഇത് ഒരു ഫാക്ടർ വിലയാണ് രണ്ടാമത്തേത് ഞങ്ങൾ റേഡിയസ് എന്ന് വിളിക്കുന്നു ഏതൊരു ജോഡി വേർട്ടക്സുകൾ തമ്മിലുള്ള ഏറ്റവും മോശമായ ദൂരമാണ് റേഡിയസ് നമുക്ക് v1 നും v3 നും ഇടയിലും v1 നും v3 നും ഇടയിൽ W12 ഉം W23 ഉം തമ്മിലുള്ള ദൂരം എന്തായിരിക്കുമെന്ന് നമുക്ക് പറയാം ഇത് W12 പ്ലസ് W23 യുടെ ഡിലേയ്യ് കണക്കാക്കും V0 നും v3 നും ഇടയിൽ പറയുക എന്താണ് ഡിലേയ്യ് 0 1 1 2 2 3 അതിനാൽ ഇതുപോലെ നിങ്ങൾക്ക് ഓരോ ജോഡി വേർട്ടക്സുകൾ തമ്മിലുള്ള ദൂരം അല്ലെങ്കിൽ ഡിലേയ്യ് കണക്കാക്കാം ഇപ്പോൾ ഇതിന്റെ പരമാവധി റേഡിയസ് നിർവചിച്ചിരിക്കുന്നത് പരമാവധി നിങ്ങൾക്ക് ജോഡി തിരിച്ചുള്ള ഡിലേയ്യ് പറയാം ഇത് ഒരു റേഡിയസ് പോലെ നിർവ്വചിക്കും ഇവ രണ്ടും പ്രധാനമാണെന്ന് നിങ്ങൾ കാണുന്നു എന്റെ മൊത്തം കണക്റ്റിംഗ് വയർ നീളം എന്തായിരിക്കുമെന്ന് ചെലവ് പറയും അതിനർത്ഥം ഇന്റർകണക്ഷൻ ഏരിയയുടെയും ഈ റേഡിയസിന്റെയും അടിസ്ഥാനത്തിൽ എന്റെ ചെലവ് പരമാവധി ജോഡി തിരിച്ചുള്ള ഡിലേയ്യ് എന്താണെന്ന് പറയുന്നു അർത്ഥമാക്കുന്നത് v0 ൽ ഒരു സിഗ്നൽ ട്രാൻസിഷൻ ഉണ്ടെങ്കിൽ ആ സിഗ്നൽ ട്രാൻസിഷൻ മറ്റേതെങ്കിലും നോഡിലേക്ക് എത്താൻ എത്ര ഡിലേയ്യ് അല്ലെങ്കിൽ എത്ര സമയമെടുക്കുമെന്ന് പറയുന്ന ഈ സ്പാനിങ് ട്രീലെ ഏറ്റവും ദൈർഘ്യമേറിയ പാത അതിനാൽ അതിന്റെ പരമാവധി എന്റെ നെറ്റിന്റെ പരമാവധി ഡിലേയ്യ് നിർണ്ണയിക്കും അതിനാൽ ഇവിടെ ഞങ്ങൾ റേഡിയസ് ചെലവ് എന്നിവ നിർവ്വചിക്കുന്നു നീളമുള്ള ജോഡി തിരിച്ചുള്ള സോഴ്സിംഗ് പാതയുടെ ദൈർഘ്യമാണ് റേഡിയസ് ചെലവ് മൊത്തം എഡ്ജ് ഭാരമാണ് ഈ സ്പാനിങ് ട്രീന്റെ ചില എഡ്ജ് അതിനാൽ നിങ്ങൾക്ക് ഒരു നിരീക്ഷണം മാത്രമേ ഉണ്ടാകൂ ഏതെങ്കിലും ജോഡി വേർട്ടക്സുകൾക്കിടയിൽ സോഴ്സ്നും സിങ്കിനും ഇടയിലുള്ള വയർ നീളത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ഈ വയർ ദൈർഘ്യം ഡിലേയ്യ് ഒരു അളവുകോൽ കൂടിയാണ് കാരണം നീളമുള്ള വയർ സാധാരണയായി വൈകും വയറുകളുടെ മറ്റ് ചില അയൽവാസികൾക്കും വരാൻ കഴിയും പക്ഷേ വയറിന്റെ ഏകദേശം നീളം പറയുന്നത് ഡിലേയ്യ് അളവാണ് അതിനാൽ ഞങ്ങൾ നേരത്തെ കണ്ടതുപോലെ ഒരു പരമ്പരാഗത റൂട്ടിംഗ് അൽഗോരിതം കാരണം ഇത് വയർ ദൈർഘ്യം കുറയ്ക്കാൻ ലക്ഷ്യമിടുന്നു അതിനാൽ അത് ആന്തരികമായും ചെലവും രണ്ടും കുറയ്ക്കണമെന്ന് നമുക്ക് പറയാൻ കഴിയും പക്ഷേ ഞങ്ങൾ കാണും കുറച്ച് കഴിഞ്ഞ് ഞാൻ ഒരു ഉദാഹരണം എടുക്കും നിങ്ങൾക്ക് ശരിക്കും റേഡിയസ് ഒപ്റ്റിമൈസ് ചെയ്യാൻ കഴിയില്ലെന്ന് കാണാം അവർ ചില അർത്ഥത്തിൽ പരസ്പര വിരുദ്ധരാണ് അതിനാൽ റേഡിയസ് ചെറുതാക്കുന്നത് നമുക്ക് പറയാം ഇത് ഒരു ആഴമില്ലാത്ത ട്രീ ആണ് അതിനർത്ഥം ട്രീ പടരുന്നില്ല ട്രീ വളരെ ഒതുക്കമുള്ളതാണ് ദൂരം കുറവാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അത്തരം വേഴ്സസ് നിങ്ങൾക്ക് മിനിമം ചിലവ് പറയാൻ കഴിയും അതിനർത്ഥം എനിക്ക് ഒരു ട്രീ ഉണ്ട് അതിന്റെ മൊത്തം അരികുകളുടെ ഭാരം വളരെ കുറവാണ് അരികുകളുടെ മൊത്തം വില കുറവാണ് അതിനാൽ ഞങ്ങൾ ഒരു ഇടപാട് നിർവ്വചിക്കുന്നു ട്രേഡ്ഓഫ് എന്നാൽ അങ്ങേയറ്റത്തെ സാഹചര്യത്തിൽ നമുക്ക് 2 വ്യത്യസ്ത തരം ട്രീ ഉണ്ടാകാം എന്നാണ് അതിനാൽ ആദ്യത്തെ ട്രീ ഏറ്റവും കുറഞ്ഞ റേഡിയസുള്ള ഒന്നാണ് അതിനർത്ഥം അത് വ്യാപിക്കുന്നില്ല സ്പാനിന്റെ കാര്യത്തിൽ ഇത് ചെറുതാണ് ട്രീലെ ഏതെങ്കിലും ജോഡി വേർട്ടക്സുകൾ തമ്മിലുള്ള ദൂരം ഏറ്റവും ചെറുതാണ് അതിനാൽ ഡിജ്ക്സ്ട്രയുടെ അൽഗോരിതംDijkstras algorithm എന്ന ക്ലാസിക്കൽ അൽഗോരിതം ഉണ്ട് ഈ അൽഗോരിതം ഉപയോഗിച്ച് ഏറ്റവും കുറഞ്ഞ റേഡിയസുള്ള സ്പാനിങ് ട്രീ കണ്ടെത്താൻ കഴിയും ഒരു ഗ്രാഫ് നൽകിയാൽ ഡിജ്ക്സ്ട്രയുടെ അൽഗോരിതം എന്താണ് ചെയ്യുന്നതെന്ന് നിങ്ങൾ കാണുന്നതിനാൽ ഏതെങ്കിലും ജോഡി വേർട്ടക്സുകൾ തമ്മിലുള്ള ഏറ്റവും കുറഞ്ഞ ദൂരം ഇത് കണ്ടെത്തുന്നു ഞങ്ങൾ പറയുന്നതുപോലെ എനിക്ക് ഇതുപോലൊരു ഗ്രാഫ് ഉണ്ട് ചില വേർട്ടക്സുകൾ ഉണ്ട് എനിക്ക് ഒരു ഗ്രാഫ് ഉണ്ടെന്ന് കരുതുക അതിനാൽ ഓരോ എഡ്ജിലും കുറച്ച് ഭാരം ഉണ്ടാകും ഇത് ചെലവിന്റെ അളവുകോലാണ് ഇപ്പോൾ ഡിജ്ക്സ്ട്രയുടെ അൽഗോരിതം പറയുന്നത് ഏതെങ്കിലും ജോഡി വേർട്ടക്സുകൾക്കിടയിൽ നമുക്ക് അതിനെ vi എന്ന് വിളിക്കാം നമുക്ക് ഈ വേർട്ടക്സുകളെ vj എന്ന് വിളിക്കാം ഇത് ഏറ്റവും ചെറിയ വഴി കണ്ടെത്തും ഏറ്റവും ചെറിയ വഴി ഇതാണ് എന്ന് നമുക്ക് പറയാം ഏറ്റവും ചെറിയ പാത ഇതാണെങ്കിൽ നമുക്ക് ഈ രണ്ട് ശീർഷകങ്ങൾക്കും ചില പേരുകൾ നൽകാം നമുക്ക് അതിനെ vm എന്നും vn എന്നും വിളിക്കാം vi യും vj യും തമ്മിലുള്ള ഏറ്റവും ചെറിയ പാത ഇതാണെങ്കിൽ ഏറ്റവും ചെറിയ മാർഗ്ഗം എന്ന് വാദത്തിലൂടെ എളുപ്പത്തിൽ തെളിയിക്കാനാകും vi നും vm നും ഇടയിൽ ഇത് ആയിരിക്കണം vi യും vn ഉം ഇത് മാത്രമായിരിക്കണം ഇത് മറ്റേതെങ്കിലും പാതയാകില്ല കാരണം vn ലേക്ക് ഒരു ചെറിയ പാത ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ പാതയിലൂടെ vj ൽ എത്താമായിരുന്നു അതിനാൽ എനിക്ക് ഏറ്റവും ചെറിയ പാത ഉള്ളപ്പോഴെല്ലാം ഏറ്റവും ചെറിയ പാതയിലുടനീളമുള്ള എല്ലാ വേർട്ടക്സുകളും ഏറ്റവും കുറഞ്ഞ പാത ഡിലേയ്യ്ൽ ഉൾപ്പെടുത്തും അതുപോലെ vi യും മറ്റ് ചില വേർട്ടക്സുകളും തമ്മിലുള്ള ഏറ്റവും ചെറിയ പാത നിങ്ങൾ പരിഗണിക്കുമ്പോൾ ഞങ്ങൾ ഇത് പറയട്ടെ എന്റെ ഏറ്റവും ചെറിയ പാത ഇതാണെന്ന് നിങ്ങൾ കണ്ടെത്തിയേക്കാം അതിനാൽ ഇതുപോലുള്ള ഏറ്റവും ചെറിയ പാതകൾ നിങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഒരു സ്പാനിങ് ട്രീ കണ്ടെത്തി പച്ചയും ചുവപ്പും എഡ്ജുകൾ കാണുക ഇത് ഒരു സ്പാനിങ് ട്രീ ആണ് അതിനാൽ ഒരു പ്രത്യേക സോഴ്സ്ൽ നിന്ന് ഈ സ്പാനിങ് ട്രീ നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ ദൂര പാതയെക്കുറിച്ച് പറയും ഈ ഓരോ വേർട്ടക്സുകളിലേക്കുള്ള ഏറ്റവും ചെറിയ ദൂരം നിങ്ങൾക്ക് നൽകും ശരിയാണ് ഇതാണ് ഡിജ്ക്സ്റ്റയുടെ അൽഗോരിതം ചെയ്യുന്നത് ഇത് വളരെ സ്റ്റാൻഡേർഡ് അൽഗോരിതം ആണ് അതിനാൽ ഇത് അടിസ്ഥാനപരമായി ഒരു വേർട്ടക്സിൽ നിന്ന് ആരംഭിക്കുകയും ചില വില മാനദണ്ഡങ്ങൾക്കനുസരിച്ച് എഡ്ജുകളിൽ ഒന്ന് ചേർക്കുകയും ചെയ്യുന്നു അതിനാൽ ഏതാണ് ഏറ്റവും കുറഞ്ഞ വിലയെന്ന് ഇത് കണ്ടെത്തുന്നു ഉദാഹരണത്തിന് ഇത് ഒരു പ്രാരംഭ നോഡ് vi ൽ ആരംഭിക്കുന്നു ഏറ്റവും കുറഞ്ഞ ഭാരം ഉള്ള vi യുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന 2 വേർട്ടക്സുകളുണ്ടെന്ന് ഇത് പരിശോധിക്കുന്നു ഇതിന് 5 ഉണ്ടെന്ന് കരുതുക ഇതിന് 7 ഉണ്ട് അതിനാൽ ഇത് ഇത് എടുക്കും ഇത് ഈ നോഡ് സന്ദർശിക്കുകയും vi മുതൽ ഇവിടേക്കുള്ള ഏറ്റവും ചെറിയ പാത ഇതാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യും ഈ രീതിയിൽ നിങ്ങൾ ഓരോ ഘട്ടത്തിലും മുന്നോട്ട് പോകും നിങ്ങൾ ഈ ഗ്രാഫിലേക്ക് ഒരു വേർട്ടക്സ് കൂടി ചേർക്കുകയും പ്രക്രിയയിൽ നിങ്ങൾ ട്രീ നിർമ്മിക്കുകയും ചെയ്യുന്നു മറ്റൊരു അങ്ങേയറ്റത്ത് നിങ്ങൾക്ക് കുറഞ്ഞ ചിലവ് ഉള്ള ഒരു ട്രീ ഉണ്ടായിരിക്കാം വീണ്ടും പ്രിമിന്റെ അൽഗോരിതം എന്നറിയപ്പെടുന്ന അൽഗോരിതം ഉണ്ട് ഇപ്പോൾ പ്രിമിന്റെ അൽഗോരിതം എന്താണ് ചെയ്യുന്നത് ഇത് യഥാർത്ഥത്തിൽ മിനിമം സ്പാനിംഗ് ട്രീ നിർമ്മിക്കുന്നു മിനിമം സ്പാനിംഗ് ട്രീ എന്നത് പരന്നുകിടക്കുന്ന ഒരു ട്രീ ആണ് എഡ്ജ് വെയിറ്റിന്റെ ആകെത്തുക ഏറ്റവും കുറഞ്ഞത് ഇപ്പോൾ ഇതാണ് ഞങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയുള്ള ട്രീൽ ആഗ്രഹിക്കുന്നത് അതിനാൽ ട്രീ നിർമ്മിക്കാൻ ഞങ്ങൾക്ക് 2 ഇതര മാർഗങ്ങളുണ്ട് ദിജ്ക്സ്ട്രയുടെയോ പ്രിമിന്റെയോ ഒന്ന് നിങ്ങൾക്ക് കുറഞ്ഞ ദൂരം നൽകും മറ്റൊന്ന് നിങ്ങൾക്ക് കുറഞ്ഞ ചിലവ് നൽകും അതിനാൽ വലിയ ചെലവ് അല്ലെങ്കിൽ വലിയ റേഡിയസ് കാരണം കുറച്ച് കഴിഞ്ഞ് ഞാൻ ഒരു ഉദാഹരണം കാണും അതിന്റെ ശുദ്ധമായ അർത്ഥത്തിൽ വൃക്ഷങ്ങളൊന്നും അഭികാമ്യമല്ല അതിനാൽ നമുക്ക് വേണ്ടത് ഒരുതരം വിട്ടുവീഴ്ചയാണ് നമ്മൾ ഇപ്പോൾ കാണുന്നതുപോലെ ഈ ഉദാഹരണത്തിൽ ഇത് കാണിച്ചിരിക്കുന്നു ചില പോയിന്റുകൾ ഉള്ള ഈ ഉദാഹരണം നോക്കാം ഈ S0 ആണ് സോഴ്സ് കൂടാതെ 1 2 3 4 മറ്റ് പോയിന്റുകൾ ഉണ്ട് ഇവയാണ് സിങ്കുകൾ 1 2 3 4 അതിനാൽ ആദ്യത്തെ 2 ഡയഗ്രമുകൾ അവർ ശാലോ ട്രീ യഥാക്രമം ദിജ്ക്സ്ട്രയുടെയും പ്രീമിന്റെയും അൽഗോരിതം ഉപയോഗിച്ച് നിർമ്മിച്ച ലൈറ്റ് ട്രീ കാണിക്കുന്നു ഇപ്പോൾ ഈ അക്കങ്ങൾ എഡ്ജുകൾക്കൊപ്പം അവ ബന്ധപ്പെട്ട എഡ്ജുകളുടെ വില നൽകുന്നു ഈ സാഹചര്യത്തിൽ നിങ്ങൾക്ക് കാണാനാകുന്നതുപോലെ മാൻഹട്ടൻ ദൂരം ഇവയാണ് 5 എന്നാൽ 1 2 3 4 5 7 എന്നാൽ 1 2 3 4 5 6 7 ഈ രീതിയിൽ നിങ്ങൾക്ക് ചെലവ് കണക്കാക്കാം കൂടാതെ ഇത് ട്രീ ആണ് എല്ലാ എഡ്ജുകളുടെയും ആകെത്തുക 5 പ്ലസ് 2 പ്ലസ് 6 പ്ലസ് 7 ഇത് 3 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് 5 ൽ കൂടുതലായിരിക്കും ഇത് കുറഞ്ഞ ചിലവാണ് മൊത്തം ചെലവ് ഇവിടെ 20 നെ അപേക്ഷിച്ച് 13 ആണ് എന്നാൽ ഇവിടുത്തെ പ്രശ്നം ജോഡി തിരിച്ചുള്ള പാതയുടെ ദൈർഘ്യം ഏറ്റവും മോശം അവസ്ഥ S0 മുതൽ ഇതുവരെയുള്ള ഏറ്റവും ദൈർഘ്യമേറിയതാണ് ഇത് 13 ഇതാണ് റേഡിയസ് അതിനാൽ ഇവിടെ S0 മുതൽ ഈ നോഡ് വരെ താരതമ്യം ചെയ്യുമ്പോൾ 8 മാത്രം ദൈർഘ്യമേറിയ പാതയുണ്ട് അതിനാൽ മിനിമം റേഡിയസ് അല്ലാത്തതോ കുറഞ്ഞ വിലയോ അല്ലാത്ത മറ്റൊരു ഗ്രാഫ് ഞാൻ ഇവിടെ കാണിക്കുന്നു പക്ഷേ ഇത് ഒരു ഇന്റർമീഡിയറ്റ് ആണ് റേഡിയസ് 8 നും 13 നും ഇടയിൽ 11 ഉം വില 20 നും 13 നും ഇടയ്ക്കും ആണ് അത് 16 ആണ് അതിനാൽ നമ്മൾ എന്താണ് ഒരു ട്രീനായി തിരയുന്നത് ഇത് ശാലോ ട്രീ ലൈറ്റ് ട്രീ തമ്മിലുള്ള ഇടപാടാണ് അതിനാൽ നിർദ്ദേശിക്കപ്പെട്ട നിരവധി അൽഗോരിതങ്ങൾ ഉണ്ട് ഇവ സാഹിത്യത്തിൽ ലഭ്യമാണ് അതിനാൽ ഒരെണ്ണം ബൌണ്ടഡ് റേഡിയസ് ബൌണ്ടഡ് കോസ്റ്റ് അൽഗോരിതം എന്ന് വിളിക്കുന്നു അതിനാൽ ഈ അൽഗോരിതം യഥാർത്ഥത്തിൽ റേഡിയസ് ചെലവ് എന്നിവയിൽ നിങ്ങൾക്ക് ചില പരിധികൾ നൽകുന്നു അത് ആ പരിധി കടക്കാത്ത ഒരു സ്പാനിങ് ട്രീ ഉറപ്പ് നൽകുന്നു ഇപ്പോൾ ആശയം വളരെ വളരെ ലളിതമാണ് ഞങ്ങൾ ബന്ധിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന വേർട്ടക്സുകളുടെ ഒരു ഗ്രാഫ് നൽകി നിങ്ങൾ ആദ്യം ഒരു ഉപഗ്രാഫ് നിർമ്മിക്കുക എല്ലാ ഗ്രഹങ്ങളുടെയും ചില എഡ്ജുകളും അടങ്ങുന്ന ആ ഗ്രാഫിന്റെ ഒരു ഉപ സെറ്റ് അതായത് ട്രീ ചെറിയ ചെലവും ചെറിയ റേഡിയസ് ഉള്ള ഞാൻ ചെറിയ ഒരു ഗുണപരമായ പദം ഉപയോഗിക്കുന്നു അതുകൊണ്ട് എന്താണ് ഈ G ഡാഷിൽ പറയുന്നത് ഒരു വൃക്ഷമാകേണ്ടതില്ല G ഡാഷ് ഒരു പൊതു ഗ്രാഫ് ആകാം കൂടാതെ പക്ഷേ ഇതിന് ഒരു ചെറിയ ചിലവും ചെറിയ റേഡിയസ് ഉണ്ട് ഇത് യഥാർത്ഥ ഗ്രാഫിന്റെ ഉപ സെറ്റാണ് അതിനാൽ ഞാൻ ഈ ഗ്രാഫ് G ഡാഷിൽ ഒരു ട്രീ നിർമ്മിക്കുകയാണെങ്കിൽ അതിന് ഒരു ചെറിയ ചിലവും റേഡിയസ് ഉള്ളതുകൊണ്ട് ഈ വൃക്ഷത്തിന് ഒരു ചെറിയ റേഡിയസ് ഒരു ചെറിയ ചിലവ് എന്നിവയും പ്രതീക്ഷിക്കുന്നു ഇപ്പോൾ ഈ ട്രീ നിർമ്മിച്ചിരിക്കുന്നത് എപ്സിലോൺ പാരാമീറ്ററിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഇത് ഒരു പോസിറ്റീവ് സ്ഥിരാങ്കമാണ് ഇത് റേഡിയസ് ചെലവ് എന്നിവ തമ്മിലുള്ള ഒരു ഇടപാട് നിർണ്ണയിക്കുന്നു ട്രീ ഏറ്റവും കുറഞ്ഞ റേഡിയസ് ട്രീയിരിക്കുമെന്നും അത് വളരെ വലുതാകുമ്പോൾ അത് ഏറ്റവും കുറഞ്ഞ വിലയുള്ള ട്രീയി മാറുകയും ചെയ്യും എന്നതാണ് ആശയം റേഡിയസ് വില എന്നിവ നിങ്ങൾ നിർവ്വചിക്കുന്ന രീതി ഇതുപോലെയാണ് അതിനാൽ ഞാൻ റേഡിയസ് കുറിച്ച് സംസാരിക്കുന്ന രീതിയിൽ 1 പ്ലസ് എപ്സിലോൺ ഉപയോഗിച്ച് ഏറ്റവും ചുരുങ്ങിയ പാത വൃക്ഷത്തിന്റെ റേഡിയസ് പരിധിയിലാണ് അതായത് യഥാർത്ഥ പാതയുടെ ഏറ്റവും ചെറിയ പാത്ത് ട്രീ ഏതാണ് ഈ BRBC ട്രീയുടെ റേഡിയസ് നിങ്ങൾക്ക് ലഭിക്കുന്നത് 1 പ്ലസ് എപ്സിലോൺ തവണയാണ് എപ്സിലോണിന്റെ ഒരു വസ്തുനിഷ്ഠമായ 1 പ്ലസ് 2 വഴി ചെലവ് ഉയർന്ന പരിധിയിൽ വരും അതിനാൽ എപ്സിലോൺ അനന്തതയിലേക്ക് പോകുമ്പോൾ ഈ പദം 0 ആയിരിക്കും ഇത് വെറും ചിലവും ഒരു എപ്സിലോൺ 0 ന് തുല്യവുമാണ് ഇത് റേഡിയസ് മാത്രമായിരിക്കും ഇത് 1 മാത്രമായിരിക്കും ഇത് ഞാൻ അൽഗോരിതം വിശദാംശങ്ങൾ കൊണ്ട് പോകുന്നില്ല എന്നാൽ ആശയം ഇങ്ങനെയാണ് ഈ 2 തമ്മിൽ ഒരു ഇടപാട് സൃഷ്ടിക്കുന്ന ഒരു പാരാമീറ്റർ ഉണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് ചിന്തിക്കാനാകുന്ന മറ്റൊരു രസകരമായ തരത്തിലുള്ള ട്രേഡ്ഓഫ് ഉണ്ട് ഈ പ്രിമിന്റെ അൽഗോരിതംprim's algorithm ദിജ്ക്സ്ട്രയുടെ അൽഗോരിതം എന്നിവ 2 അങ്ങേയറ്റത്ത് നിന്ന് കാണുക ഒന്ന് നമുക്ക് ഏറ്റവും കുറഞ്ഞ ചിലവും മറ്റേത് നമുക്ക് കുറഞ്ഞ ദൂരവും നൽകുന്നു എന്തുകൊണ്ടാണ് നമുക്ക് പ്രിമിന്റെയും ദിജ്ക്സ്ട്രയുടെയും ഇടയിൽ നേരിട്ട് ഒത്തുതീർപ്പ് ഉണ്ടാക്കാൻ കഴിയാത്തത് അതിനാൽ ഈ രീതി അതിനെക്കുറിച്ച് സംസാരിക്കുന്നു ഇവിടെ കാണപ്പെടുന്ന നിരീക്ഷണം ഈ പ്രിമിന്റെയും ദിജ്ക്സ്ട്രയുടെയും വ്യത്യസ്ത അൽഗോരിതം ആണെങ്കിലും അവ പ്രവർത്തിക്കുന്ന രീതി തികച്ചും സമാനമാണ് രണ്ട് അൽഗോരിതങ്ങളും ക്രമാനുഗതമായി സിങ്കുകളുടെ കൂട്ടത്തിൽ നിന്ന് ട്രീ നിർമ്മിക്കാൻ ശ്രമിക്കുന്നു തുടക്കത്തിൽ സോഴ്സ് നോഡ് മാത്രം ഉൾക്കൊള്ളുന്ന ഒരു ട്രീൽ നിന്നാണ് ഇത് ആരംഭിക്കുന്നത് ഓരോ ഘട്ടത്തിലും അത് S ൽ നിന്ന് ഒരു നോഡ് ചേർക്കുകയും ട്രീ ക്രമേണ നിർമ്മിക്കുകയും ചെയ്യുന്നു ഒരേയൊരു വ്യത്യാസം ചില ചെലവ് പ്രവർത്തനത്തെ അടിസ്ഥാനമാക്കിയുള്ള നോഡ് ചേർക്കുന്നതിനുള്ള ചിലവ് ഈ നോട്ട് മൂല്യം അടുത്ത നോഡ് എന്താണെന്ന് നിങ്ങളോട് പറയും നിങ്ങൾ നോഡുകൾ ചേർക്കുമ്പോൾ ഞങ്ങൾ സ്പാനിംഗ് ട്രീയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിനാൽ നിങ്ങൾ അത് നോക്കിയാൽ പ്രിമിന്റെ അൽഗോരിതത്തിൽ ഭാരം പ്രവർത്തിക്കുന്നത് ഇപ്രകാരമാണ് ഓരോ ഘട്ടത്തിലും നിങ്ങൾ ഒരു വേർട്ടക്സുകൾ ചേർക്കുക j എന്നത് സിങ്ക് sj എന്നും si എന്നത് മറ്റൊരു നോഡാണെന്നും പറയുക നിങ്ങൾ ഒരു വേർട്ടക്സുകൾ ചേർക്കുക അതായത് si sj എന്നിവയുടെ വില കുറഞ്ഞത് ഇതാണ് എന്റെ ചിലവ് പ്രവർത്തനം അതിനാൽ ഒരു ഗ്രാഫ് നൽകുമ്പോൾ മറ്റേതെങ്കിലും വേർട്ടക്സുകളിൽ നിന്ന് അതിന്റെ ദൂരം കുറവായിരിക്കേണ്ട ഒരു വേർട്ടക്സ് ചേർക്കാൻ ഞാൻ ശ്രമിക്കുന്നു സോഴ്സ് വേർട്ടക്സുകളിൽ നിന്ന് അല്ല അത് പ്രിമിന്റെ അൽഗോരിതം ആണ് അതിനാൽ ഈ സിക്ക് നിലവിലുള്ള ഭാഗിക ട്രീലെ ഏതെങ്കിലും ഒരു വേർട്ടക്സ്ന് കഴിയും ഞാൻ മറ്റൊരു നോഡ് sj ചേർക്കുന്നു അതിനാൽ ഞാൻ ചെറുതാക്കാൻ ശ്രമിക്കുന്നു SI s j ചെലവ് ഏറ്റവും കുറവുള്ള ആ si ആണ് ഞാൻ തിരഞ്ഞെടുക്കേണ്ടത് ദിജ്ക്സ്ട്രയുടെ അൽഗോരിതം ഇവിടെ ഞങ്ങൾ യഥാർത്ഥ സോഴ്സ്സായ s0 മായി ഈ sj യുടെ വില കുറയ്ക്കാൻ ശ്രമിക്കുന്നു അതിനാൽ നമ്മൾ എഡ്ജ് si ചേർക്കുമ്പോഴെല്ലാം sj ചെലവ് യഥാർത്ഥത്തിൽ s0 മുതൽ si വരെയാണ് കൂടാതെ si മുതൽ sg വരെയുള്ള വില ഇത് ദിജ്ക്സ്ട്രയുടേതാണ് അതിനാൽ ഈ 2 കോമ്പിനേഷൻ അല്ലെങ്കിൽ ട്രേഡ്ഓഫ് നോക്കുമ്പോൾ നിങ്ങൾ ഒരു ഫാക്ടർ ഗാമാ ചേർത്ത് കോസ്റ്റ് ഫംഗ്ഷൻ പരിഷ്കരിക്കുന്നുവെന്ന് പറയുന്നു ഗാമയെ s0 si കൂടാതെ si sjയുടെ വില എന്ന് എഴുതുക അതിനാൽ നിങ്ങളുടെ പാരാമീറ്റർ ഗാമ 0 ന് തുല്യമാണോ എന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും ചെലവ് പ്രവർത്തനം പ്രിമിന്റെ അൽഗോരിതം പോലെയാണ് ഗാമ 1 ന് തുല്യമാണെങ്കിൽ അത് ദിജ്ക്സ്ട്രയുടെ അൽഗോരിതം പോലെയാകും 0 നും 1 നും ഇടയിലുള്ള ഏത് മൂല്യവും യഥാർത്ഥത്തിൽ ഒരു ട്രേഡ്ഓഫിനെ പ്രതിനിധീകരിക്കും അതിനാൽ ഇത് 0 നോട് അടുക്കുന്നുവെങ്കിൽ 0 നോട് അടുക്കുക എന്നതിനർത്ഥം അത് പ്രിമിനോട് അടുക്കും എന്നാണ് അത് 1 നോട് അടുക്കുകയാണെങ്കിൽ അത് ദിജ്ക്സ്ട്രനോട് കൂടുതൽ അടുക്കും എന്നാണ് അതിനാൽ നിങ്ങൾക്ക് ഇതുപോലുള്ള ഒരു ഇടപാട് നടത്താം ഗാമയ്ക്ക് തുല്യമായ 0 ന് ഞാൻ സൂചിപ്പിച്ചത് ഇതാണ് പ്രിമിന്റെ അൽഗോരിതത്തിന് സമാനമാണ് ഗാമ 1 ന് തുല്യമാണ് ഇത് ഡിജ്ക്സ്ട്രയുടെ അൽഗോരിതം ആയി മാറുന്നു എന്നാൽ അതിനിടയിൽ ഒരു ട്രേഡ്ഓഫ് ആണ് അതിനാൽ ഒരു ഉദാഹരണം മാത്രം ഇവിടെ കാണിച്ചിരിക്കുന്നു 0 25 ന് തുല്യമായ ഗാമയ്ക്ക് ഒരു നിശ്ചിത ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഇതുപോലുള്ള ഒരു ട്രീ ലഭിക്കും എന്നാൽ നിങ്ങൾ 0 75 ന് തുല്യമായ ഗാമയുടെ വലിയ മൂല്യം എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലുള്ള ഒരു ട്രീ ലഭിക്കും അതിനാൽ ഗാമയുടെ കുറഞ്ഞ മൂല്യം ഇത് ചുരുങ്ങിയത് വ്യാപിക്കുന്ന ഒരു ട്രീ പോലെയാകും എന്നാൽ ഗാമയുടെ ഉയർന്ന മൂല്യം അത് ഒരു മിനിമം റേഡിയസ് വൃക്ഷം പോലെയാകുന്നു അതിനാൽ ഈ ട്രീ ഇതുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കുറച്ചുകൂടി വ്യാപിച്ചതായി കാണുന്നു അതിനാൽ ഉപയോഗിക്കാൻ കഴിയുന്ന മറ്റ് ചില പാരാമീറ്ററുകളും ഉണ്ട് ഒരു മൾട്ടി പിൻ നെറ്റിനെ പോലെ പൊതുവേ മിക്ക പിനുകളും മൾട്ടി നെറ്റ് ആണോ അതിനാൽ ഏറ്റവും കുറഞ്ഞ ടൈം സ്ലാക്ക് ഉള്ള ഈ സിങ്ക് ആ സിങ്ക് ക്രിട്ടിക്കൽ സിങ്കായി ഞങ്ങൾ തിരിച്ചറിയുന്നു ഇവിടെ നിങ്ങൾ പറയുന്നത് ഇതാണ് നിർണായക സിങ്ക് വിവരങ്ങൾ പരിഗണിക്കാത്ത ഒരു റൂട്ടിംഗ് ട്രീ ഞങ്ങൾ പരിഗണിക്കുന്നു ഞങ്ങൾ ഇത് ചെയ്യുകയാണെങ്കിൽ ചില നിർണായക ഭാഗങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു ട്രീ ഞങ്ങൾ നിർമ്മിച്ചേക്കാം ചില സ്ലാക്ക് നെഗറ്റീവ് ആയിത്തീർന്നേക്കാം ഇത് സമയ പ്രവർത്തനത്തിന്റെ മൊത്തത്തിലുള്ള അപചയത്തിന് കാരണമായേക്കാം അതിനാൽ സോഴ്സ് സിങ്ക് ഡിലേയ്യ് കുറയ്ക്കുക എന്നതിനർത്ഥം ഞങ്ങൾ നിർണായക സിങ്കുകളുടെ ട്രാക്ക് സൂക്ഷിക്കുന്നു എന്നാണ് ഏത് സിങ്കുകൾ നിർണായകമാണെന്ന് കണക്കിലെടുത്ത് ഞങ്ങൾ ട്രീൽ നോഡുകൾ ചേർക്കുന്നു ഇവിടെ പോലെ ഞങ്ങൾ ഒരു നിർണായക ഘടകം നിർവ്വചിക്കുന്നു ഓരോ സിങ്ക് siലും alpha i പറയുക അതിനാൽ നിർണായകമായ സിങ്കുകൾ അവയ്ക്ക് alpha i യുടെ ഉയർന്ന മൂല്യവും ഞങ്ങൾ കണക്കുകൂട്ടുന്ന മരത്തിന്റെ മൊത്തം വിലയും ആയിരിക്കും എഡ്ജ് ചിലവുകളുടെ ആകെത്തുക പക്ഷേ alpha i എഡ്ജ് വില കൊണ്ട് ഗുണിക്കുന്നു അതിനാൽ നിർണായകമായ എഡ്ജ് ഈ മൊത്തം സംഗ്രഹത്തിന് ഉയർന്ന സംഭാവന നൽകും അതിനാൽ ഇതാണ് അടിസ്ഥാന ആശയം അതിനാൽ നിങ്ങൾ ഈ മാനദണ്ഡം ചെറുതാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അതിനാൽ ഓട്ടോമാറ്റിക്കായി നിങ്ങളുടെ സിങ്കുകൾ ഈ മൊത്തത്തിലുള്ള തുക പരമാവധി കുറയ്ക്കുന്ന തരത്തിൽ താഴ്ന്ന എഡ്ജുകൾ ചില നോഡുകളിലേക്ക് യാന്ത്രികമായി ബന്ധിപ്പിക്കാൻ ശ്രമിക്കും അതുപോലെ നിങ്ങൾക്ക് ഒരു ക്രിട്ടിക്കൽ സിങ്ക് സ്റ്റെയ്നർ ട്രീ ഹ്യൂറിസ്റ്റിക് ഉണ്ടായിരിക്കാം ഇവിടെ അത് എന്തു ചെയ്യുന്നു അത് ആദ്യം ഒരു നിർണായക സിങ്ക് ഒഴികെയുള്ള ഒരു മിനിമം ചെലവ് സ്റ്റെയ്നർ ട്രീ നിർമ്മിക്കുന്നു ഒരൊറ്റ ക്രിട്ടിക്കൽ സിങ്ക് sc ഉണ്ടെന്ന് കരുതുക അത് ആദ്യം ഒരു സ്റ്റെയിനർ ട്രീ നിർമ്മിക്കുന്നു നിർണായക സിങ്ക് ഒഴികെ അത് ചേർക്കാൻ നിലവിലുള്ളതിലേക്ക് sc ചേർക്കാൻ ചില ഹ്യൂറിസ്റ്റിക് ഉപയോഗിക്കുന്നു നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള 3 ഹ്യൂറിസ്റ്റിക്സ് ഉണ്ട് ഈ സോഴ്സ് നിങ്ങൾ sc ലേക്ക് sc നേരിട്ട് ബന്ധിപ്പിക്കുന്നു എന്നതാണ് ഒരു ഹ്യൂറിസ്റ്റിക് രണ്ടാമത്തേത് പറയുന്നു നിലവിലുള്ള ട്രീമായി sc ബന്ധിപ്പിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ വയർ നിങ്ങൾ അവതരിപ്പിക്കുന്നു മൊത്തം വയർ ദൈർഘ്യം ഇപ്പോഴും കുറഞ്ഞത് ആയിത്തീരുന്നതിനാൽ ഇതിനെ ഒരു മോണോടോൺ പ്രോപ്പർട്ടി എന്ന് വിളിക്കുന്നു മൂന്നാമത്തേത് പറയുന്നു നിങ്ങൾ സാധ്യമായ എല്ലാ കണക്ഷനുകളും ശ്രമിക്കുക ആ വൃക്ഷം T0 ൽ സാധ്യമായ എല്ലാ പോയിന്റുകളുമായി ബന്ധിപ്പിക്കാൻ ശ്രമിക്കുക ഇവയിൽ ഓരോന്നിനും നിങ്ങൾ ഡിലേയ്യ് കുറവാണെന്ന് കണ്ടെത്താൻ സമയ വിശകലനം നടത്തുക അതിനാൽ അത് ഉപയോഗിക്കുക അതിനാൽ ആവശ്യമായ വരവ് സമയം ഉപയോഗിക്കുന്ന ഒന്ന് പോലുള്ള മറ്റ് രീതികളും ഉണ്ട് അതിനാൽ ഇത് ഇതുപോലുള്ള ഒരു സ്ലാക്ക് കണക്കാക്കാനും ഇത് ചെറുതാക്കാനും ശ്രമിക്കുന്നു അതിനാൽ ഇവ ഞാൻ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല അതിനാൽ ഞങ്ങൾ ഈ പ്രഭാഷണത്തിന്റെ അവസാനത്തിലേക്ക് വരുന്നു സമയ നിയന്ത്രണങ്ങൾ നിയന്ത്രിക്കാൻ റൂട്ടിംഗ് ഘട്ടത്തിൽ ഉപയോഗിക്കാവുന്ന ചില ടൈമിംഗ് ഡ്രെവൻ റൂട്ടിംഗ് തന്ത്രങ്ങളും സാങ്കേതികതകളും ഞങ്ങൾ പരിശോധിച്ചു അല്ലെങ്കിൽ അവ ലംഘിക്കപ്പെടുന്നില്ല